നമസ്കാരം ലാപ്ലേസ് പരിവർത്തനം സർക്യൂട്ട് വിശകലനത്തിനായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഈ ആഴ്ച കാണാം നമ്മുടെ ചർച്ച ആരംഭിക്കാം വിശദമായി പോകുന്നതിനുമുമ്പ് ലാപ്ലേസ് പരിവർത്തനത്തെക്കുറിച്ച് നമ്മൾ എന്താണ് ചർച്ച ചെയ്തതെന്ന് ആദ്യം മനസിലാക്കാം ലാപ്ലേസ് പരിവർത്തനം ഒരു ടൈം ഡൊമെയ്ൻ ഫംഗ്ഷനിൽ പ്രതിനിധീകരിക്കുന്ന ഒരു സിഗ്നലിനെ എസ് ഡൊമെയ്നിൽ വിശകലനം ചെയ്യാൻ അനുവദിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് സമയ ഡൊമെയ്നിൽ ഫംഗ്ഷൻ ഉള്ള സിഗ്നൽ ഉണ്ടെങ്കിൽ അത് വിശകലനത്തിനായി എസ് ഡൊമെയ്നിൽ പ്രതിനിധീകരിക്കാം ലാപ്ലേസ് പരിവർത്തനത്തിന്റെ സവിശേഷതകളും അടിസ്ഥാന പൊതു ഫംഗ്ഷനുകളുടെ ലാപ്ലേസ് പരിവർത്തനവും മുമ്പത്തെ ക്ലാസുകളിൽ ചർച്ച ചെയ്തു അതിനുശേഷം വിപരീത ലാപ്ലേസ് പരിവർത്തനത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു വിപരീത ലാപ്ലേസ് പരിവർത്തനം ഭാഗിക ഭിന്നസംഖ്യ വികസിപ്പിക്കുക വഴിയോ ലാപ്ലേസ് ട്രാൻസ്ഫോം ജോഡി സാങ്കേതികത ഉപയോഗിച്ചോ കണ്ടെത്താൻ കഴിയുമെന്ന് നമ്മൾ പറഞ്ഞു യഥാർത്ഥ പോളുകൾ എക്സ്പോണൻഷ്യൽ പ്രവർത്തനങ്ങളിലേക്കും സങ്കീർണ്ണ പോളുകൾ ഡാംപ്ഡ് സിനുസോയിഡുകളിലേക്കും നയിക്കുന്നുവെന്നും നമ്മൾ ചർച്ചചെയ്തു സർക്യൂട്ട് വിശകലനത്തിന് ആവശ്യമായ പ്രാരംഭവും അന്തിമവുമായ അവസ്ഥകൾ കണ്ടെത്താനാകുന്ന പ്രാരംഭ അന്തിമ മൂല്യ സിദ്ധാന്തങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു അതിനാൽ ലാപ്ലേസ് പരിവർത്തനത്തെക്കുറിച്ച് ചർച്ചചെയ്യുമ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ ഇവയാണ് ഇപ്പോൾ ലാപ്ലേസ് പരിവർത്തനം ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ സർക്യൂട്ട് വിശകലനം നടത്തും എന്നതിനെക്കുറിച്ച് സംസാരിക്കാം ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് വിശകലനം ചെയ്യുന്നതിനുള്ള മികച്ച സാങ്കേതിക വിദ്യകളിലൊന്നാണ് ലാപ്ലേസ് പരിവർത്തനം ഇതിൽ മൂന്ന് പ്രധാന ഘട്ടങ്ങൾ ഉൾപ്പെടുന്നു ഒന്ന് നിങ്ങൾ സമയ ഡൊമെയ്നിൽ നിന്ന് എസ് ഡൊമെയ്നിലേക്ക് സർക്യൂട്ട് പരിവർത്തനം ചെയ്യുന്നു അതിനർത്ഥം ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ നിങ്ങളുടെ കൈവശമുള്ള സർക്യൂട്ട് ഘടകങ്ങൾ എല്ലാം ആദ്യം എസ് ഡൊമെയ്നിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടും എന്നാണ് മുമ്പത്തെ ക്ലാസുകളിൽ നമ്മൾ ചർച്ച ചെയ്ത സർക്യൂട്ട് വിശകലന രീതികൾ ഉപയോഗിച്ച് നമ്മൾ സർക്യൂട്ട് പരിഹരിക്കും അവ നോഡൽ അനാലിസിസ് മെഷ് അനാലിസിസ് അല്ലെങ്കിൽ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ സൂപ്പർപോസിഷൻ അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്ത ഏതെങ്കിലും സർക്യൂട്ട് അനാലിസിസ് ടെക്നിക്കുകൾ എന്നിവ ഉൾപ്പെടുന്നുകൂടാതെ തെവെനിന്റെയും നോർട്ടന്റെയും തുല്യത സർക്യൂട്ട് Thevenin's and Norton's equivalent circuit ഉൾക്കൊള്ളുന്നു രണ്ടാമത്തെ ഘട്ടം എസ് ഡൊമെയ്നിൽ നമ്മൾ രൂപീകരിച്ച സർക്യൂട്ട് എന്തായാലും എസ് ഡൊമെയ്നിലെ സർക്യൂട്ട് പരിഹരിക്കുന്നതിന് നമ്മൾ സർക്യൂട്ട് വിശകലന സാങ്കേതികത ഉപയോഗിക്കും ഒടുവിൽ എസ് ഡൊമെയ്നിൽ ഉത്തരം ലഭിക്കുമ്പോൾ ഫലനിർണ്ണയത്തിനായി വിപരീത ലാപ്ലേസ് പരിവർത്തനം ഉപയോഗിക്കും ഒടുവിൽ നമ്മൾ സമയ ഡൊമെയ്നിൽ ഉത്തരം കണ്ടെത്തും സർക്യൂട്ട് വിശകലനം നടത്തുമ്പോൾ നമ്മൾ പിന്തുടരുന്ന മൂന്ന് പ്രധാന ഘട്ടങ്ങളാണിവ അതിനാൽ നമ്മൾ ആദ്യം മനസിലാക്കേണ്ടത് സമയ ഡൊമെയ്നിൽ നിന്നുള്ള വിവിധ സർക്യൂട്ട് ഘടകങ്ങളെ എങ്ങനെ എസ് ഡൊമെയ്നിലേക്ക് പരിവർത്തനം ചെയ്യാമെന്നതാണ് നമ്മുടെ സർക്യൂട്ടിൽ ഉള്ള മൂന്ന് പ്രധാന ഘടകങ്ങൾ റെസിസ്റ്ററുകൾ ഇൻഡക്ടറുകൾ കപ്പാസിറ്ററുകൾ എന്നിവയാണ് മൂന്ന് ഘടകങ്ങളെ എസ് ഡൊമെയ്നിലേക്ക് എങ്ങനെ പരിവർത്തനം ചെയ്യാം ടൈം ഡൊമെയ്നിലെ വോൾട്ടേജ് കറണ്ട് ബന്ധത്തെ റെസിസ്റ്ററിനായി ഓംസ് നിയമപ്രകാരംohm's law ഇത് v iR എന്നാണെന്ന് നമുക്കറിയാം ഇപ്പോൾ നിങ്ങൾ ലാപ്ലേസ് പരിവർത്തനം എടുത്താൽ നമ്മൾക്ക് സമയ ഡൊമെയ്ൻ സമവാക്യം എസ് ഡൊമെയ്നായി പരിവർത്തനം ചെയ്യപ്പെടും അതിനാൽ v V ആയി മാറും R എന്നത് ഒരു സ്ഥിരമായ അളവാണ് മാറ്റമൊന്നുമില്ല i I ആയി മാറും റെസിസ്റ്ററിനെ ഫ്രീക്വൻസി ഡൊമെയ്നിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ ഇത് നമുക്ക് ലഭിക്കും ഇപ്പോൾ ഇൻഡക്റ്ററിനായി ഇൻഡക്റ്ററിന് കുറുകെ വോൾട്ടേജ് ഈ സമവാക്യത്തിലൂടെ നൽകാമെന്ന് നമുക്കറിയാം ലാപ്ലേസ് പരിവർത്തനത്തിന്റെ വിവിധ സവിശേഷതകളെക്കുറിച്ച് ചർച്ചചെയ്യുമ്പോൾ മുൻ ക്ലാസുകളിൽ നമ്മൾ ചർച്ച ചെയ്ത സമയ അവകലനം ഇപ്പോൾ ഉപയോഗിക്കും ഇൻഡക്റ്ററിനായുള്ള ഈ സമയ ഡൊമെയ്ൻ സമവാക്യം ലാപ്ലേസ് ഡൊമെയ്നിൽ നിന്ന് എസ് ഡൊമെയ്നിലക്ക് പരിവർത്തനം ചെയ്യും അതിനാൽ v V ആയി മാറും ഇപ്പോൾ L ഒരു സ്ഥിരമായ അളവായി തുടരും പക്ഷേ di dt ആണെങ്കിൽ നമ്മൾ സമയ അവകലന സാങ്കേതികത ഉപയോഗിക്കും അതിനാൽ നമുക്ക് di dt യുടെ ലാപ്ലേസ് പരിവർത്തനം ആയി ലഭിക്കും അതിനാൽ ഇൻഡക്റ്റർ വോൾട്ടേജിന്റെ ലാപ്ലേസ് പരിവർത്തനം ആണ് അടുത്തതായി നമുക്ക് എസ് ഡൊമെയ്നിൽ ലഭിക്കുന്ന ആ സമവാക്യത്തെ സർക്യൂട്ടിൽ എങ്ങനെ പ്രതിനിധീകരിക്കുന്നു എന്നതാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരേ സമയം നിങ്ങൾക്ക് കറന്റ് I ന്റെ മൂല്യവും ഒരേ സമവാക്യത്തിന്റെ സഹായത്തോടെ കണക്കാക്കാമെന്ന് നമ്മൾക്കറിയാം അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ നിങ്ങൾ സമവാക്യം പുനക്രമീകരിക്കും അതിനാൽ ഇപ്പോൾ നമുക്ക് ഇൻഡക്റ്റർ വോൾട്ടേജും ഇൻഡക്റ്റർ കറന്റും എസ് ഡൊമെയ്നിൽ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഈ സമവാക്യങ്ങളെ തുല്യാർത്ഥകമായ സർക്യൂട്ടായി പരിവർത്തനം ചെയ്യും അതിനാൽ ടൈം ഡൊമെയ്നിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ നമുക്ക് ഒരു ഇൻഡക്റ്റർ ഉണ്ട് അത് ടി സമയത്തിൽ കറന്റ് I പ്രവഹിക്കുന്നു പ്രാരംഭ കറന്റ് i0 ആയി ഇൻഡക്റ്ററിന് കുറുകെ ഉള്ള വോൾട്ടേജ് ഏത് സമയത്തും v ആണ് അതിനാൽ ഇൻഡക്റ്റർ വോൾട്ടേജിന്റെയും കറന്റിന്റെയും സമയ ഡൊമെയ്ൻ പ്രാതിനിധ്യം ഇതാണ് ഇപ്പോൾ നമ്മൾ അവയെ എസ് ഡൊമെയ്നായി പരിവർത്തനം ചെയ്യേണ്ടതുണ്ടെങ്കിൽ v V ഉം i I ഉം ആയിത്തീരും ഇപ്പോൾ ഇൻഡക്റ്റർ L നായി നമ്മൾ എന്തുചെയ്യും ആണ് എന്ന് നമുക്കറിയാം മൈനസ് ചിഹ്നത്തെ പ്രതിനിധീകരിക്കുന്നതിന് സാങ്കൽപ്പിക വോൾട്ടേജ് ഉറവിടത്തിന്റെ പൊളാരിറ്റി അതായത് ഇൻഡക്റ്ററിനായുള്ള പ്രാരംഭ അവസ്ഥയെ പ്രതിനിധീകരിക്കുന്ന സമയം t പൂജ്യത്തിനു തുല്യമാകുമ്പോൾ പൊളാരിറ്റി വിപരീതമായിരിക്കും അതിനാൽ ഇൻഡക്റ്ററിനായുള്ള എസ് ഡൊമെയ്നിലെ വോൾട്ടേജിന്റെ സമവാക്യം sL ആയി മാറും അത് Iന് തുല്യമായ വോൾട്ടേജ് സ്രോതസ്സുമായി ശ്രേണിയിൽ ഉള്ള ഇൻഡക്റ്ററാണ് മുകളിൽ നെഗറ്റീവ് പോളാരിറ്റിയും ചുവടെ പോസിറ്റീവ് അതിനാൽ ഇത് നമ്മൾ സമയ ഡൊമെയ്നെ എസ് ഡൊമെയ്നായി പരിവർത്തനം ചെയ്യുമ്പോൾ ഉരുത്തിരിഞ്ഞ സമവാക്യത്തെ പ്രതിനിധീകരിക്കും അതുപോലെ കറന്റിനായി ഇൻഡക്റ്ററിന് കുറുകെ ഉള്ള വോൾട്ടേജ് v ആണെങ്കിൽ എസ് ഡൊമെയ്നിലെ V ആയി പ്രതിനിധീകരിക്കുമെന്നും അതുപോലെ തന്നെ കറന്റ് i I ആയി പ്രതിനിധീകരിക്കുമെന്നും നിങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങൾ ഈ സമവാക്യം കാണുകയാണെങ്കിൽ ഇതിൽ നിന്ന് കറന്റ് I പരിവർത്തനം ചെയ്യപ്പെട്ടതായി നിങ്ങൾക്ക് കാണാൻ കഴിയും അത് രണ്ട് ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ കറന്റ് I നമ്മൾ കണ്ടെത്തണമെങ്കിൽ തുല്യമായ സർക്യൂട്ട് കണ്ടെത്താൻ നമ്മൾ ആ സമവാക്യം ഉപയോഗിക്കും അതിനാൽ ആദ്യം മുതൽ നമുക്ക് ലഭിക്കുന്ന മൂല്യം ആണ് അതിനാൽ ഇൻഡക്ടറിലൂടെ ഒഴുകുന്ന പ്രാരംഭ വൈദ്യുതധാരയെ പ്രതിനിധീകരിക്കുന്ന കറന്റ് സ്രോതസ്സിന്റെ മൂല്യം ഇത് ആയിരിക്കും ദിശ താഴേക്ക് ആയിരിക്കും കാരണം അത് പോസിറ്റീവ് ആയതിനാൽ സാങ്കൽപ്പിക കറന്റ് സ്രോതസ്സ് ഇതേ ദിശയിൽ തന്നെ കറന്റ് I നൽകും അത് ഇൻഡക്റ്ററിലൂടെ ഒഴുകുന്ന കറന്റിന്റെ പ്രാരംഭ അവസ്ഥയെ പ്രതിനിധീകരിക്കുന്നു ഇനി ഇൻഡക്ടറിലൂടെ ഒഴുകുന്ന കറൻറ്റ് മൂല്യം ഇത് അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഇൻഡക്റ്ററിന്റെ ഈ മൂല്യം sL ആയിരിക്കും എന്നാണ് ഇതിനർത്ഥം അതിനാൽ ഈ രീതിയിൽ നമുക്ക് ഇൻഡക്റ്ററിനെ വോൾട്ടേജ് രൂപത്തിലോ കറന്റ് രൂപത്തിലോ പ്രതിനിധീകരിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾ സർക്യൂട്ട് സമവാക്യം പരിഹരിക്കുമ്പോഴെല്ലാം ഇവ ആവശ്യമാണ് നിങ്ങൾ കിർചോഫ് വോൾട്ടേജ് നിയമം Kirchoffs voltage law ഉപയോഗിക്കുമ്പോൾ ഇത് സാധാരണയായി ഉപയോഗിക്കും കൂടാതെ സർക്യൂട്ടുകൾ പരിവർത്തനം ചെയ്യുന്നതിന് നിങ്ങൾ കിർചോഫ് കറൻറ്റ് നിയമംkirchoffs current law ഉപയോഗിക്കുമ്പോൾ ഇത് ഉപയോഗപ്പെടുത്താം അടുത്തത് നമുക്ക് കപ്പാസിറ്ററിനെക്കുറിച്ച് സംസാരിക്കാം അതിനാൽ കപ്പാസിറ്ററിന്റെ കാര്യത്തിൽ നമുക്ക് കറന്റ് ആണെന്നറിയാം അതിനാൽ സമയ ഡൊമെയ്നിലെ സമവാക്യം ഉപയോഗിച്ച് നമ്മൾ ഇത് എസ് ഡൊമെയ്നായി പരിവർത്തനം ചെയ്യും നമ്മൾ അതിനെ എസ് ഡൊമെയ്നിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ അത് ആയി മാറും ഇപ്പോൾ അതേ രീതിയിൽ വോൾട്ടേജിന്റെ കാര്യത്തിൽ ഈ സമവാക്യം നിങ്ങൾ പുനക്രമീകരിക്കുകയാണെങ്കിൽ അതിനാൽ ഇവ രണ്ടും എസ് ഡൊമെയ്നിലെ കപ്പാസിറ്ററിനെ നിയന്ത്രിക്കുന്ന സമവാക്യങ്ങളായിരിക്കും അതിനാൽ ഇൻഡക്റ്ററിന്റെ കാര്യത്തിലെന്നപോലെ കപ്പാസിറ്ററിന്റെ കാര്യത്തിലും നമുക്ക് സർക്യൂട്ടിലെ ഈ രണ്ട് സമവാക്യങ്ങളെയും പ്രതിനിധീകരിക്കാം അതിനാൽ എസ് ഡൊമെയ്നിലെ കപ്പാസിറ്ററിന് തുല്യമായവയെ എങ്ങനെ പ്രതിനിധീകരിക്കും എന്ന് നോക്കാം അതിനാൽ ടൈം ഡൊമെയ്നിലെ കപ്പാസിറ്ററിന്റെ തുല്യമായ പ്രാതിനിധ്യമാണിത് അവിടെ നിങ്ങൾക്ക് കപ്പാസിറ്ററിന് കുറുകെ v ആയി വോൾട്ടേജ് ഉണ്ട് പ്രാരംഭ വോൾട്ടേജ് v ആണ് ഇപ്പോൾ കപ്പാസിറ്റന് കുറുകെ ഉള്ള എസ് ഡൊമെയ്നിലെ വോൾട്ടേജ് V കണ്ടെത്താൻ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ഈ സമവാക്യം ഉപയോഗിക്കും അതിൽ രണ്ട് പദങ്ങൾ അടങ്ങിയിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും രണ്ടും വോൾട്ടേജ് ആയതിനാൽ അത് പോസിറ്റീവ് ആയതിനാൽ അതിനർത്ഥം മുകളിൽ പ്ലസ് പോളാരിറ്റിയും ചുവടെ നെഗറ്റീവും ആയതുമായ ഒരു പോസിറ്റീവ് വോൾട്ടേജ് സ്രോതസ്സ് മൂല്യം ആയിരിക്കും അതിനാൽ ഇത് സാങ്കൽപ്പിക വോൾട്ടേജ് സ്രോതസ്സ് ആയിരിക്കും അത് t0 സമയത്ത് കപ്പാസിറ്ററിലുടനീളമുള്ള വോൾട്ടേജ് Vs എന്നതിന് തുല്യമായ പ്രാരംഭ അവസ്ഥയെ പ്രതിനിധീകരിക്കുന്നു ഇപ്പോൾ 1sC ഇവിടെ കപ്പാസിറ്ററിന്റെ മൂല്യമായിരിക്കും കാരണം നിലവിലുള്ളത് I സർക്യൂട്ടിലൂടെ ഒഴുകുന്നുവെന്ന് നിങ്ങൾ പറയുമ്പോൾ കപ്പാസിറ്ററിന് കുറുകെ ഉള്ള ഉള്ള വോൾട്ടേജ് ഡ്രോപ്പും ആണ് v s നിങ്ങൾ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എസ് ഡൊമെയ്നിലെ v എന്ന മൂല്യം ലഭിക്കും അതിനാൽ നിങ്ങൾ കിർചോഫ് വോൾട്ടേജ് നിയമം പ്രയോഗിക്കുമ്പോൾ ഇത് ആവശ്യമാണ് ഇപ്പോൾ അടുത്തതായി നിങ്ങൾക്ക് ഈ രണ്ട് പദങ്ങളുടെ അടിസ്ഥാനത്തിൽ കറന്റ് Iനെയും പ്രതിനിധീകരിക്കാൻ കഴിയും നിങ്ങൾ ഈ രണ്ട് പദങ്ങളും കറന്റ് പദങ്ങളല്ലാതെ മറ്റൊന്നുമല്ല കാരണം I കറന്റ് ആണ് I രണ്ട് ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ നമ്മൾ അതിനെ സർക്യൂട്ടിൽ പ്രതിനിധീകരിക്കുമ്പോൾ ആദ്യത്തെ പദം 1sC മൂല്യം കാണും കൂടാതെ നിങ്ങൾ V നെ 1sC കൊണ്ട് ഹരിക്കുമ്പോൾ നിങ്ങൾക്ക് sCV ലഭിക്കും അത് സർക്യൂട്ടിന്റെ ഈ ഭാഗത്തിലൂടെ ഒഴുകുന്ന കറൻറ് അല്ലാതെ മറ്റൊന്നുമല്ല അടുത്തത് CV സമയം t 0 എന്നത് ഒരു കറന്റ് പദമാണ് ഇത് സ്ഥിരമായ ഒരു മൂല്യമാണ് കാരണം ഇത് t0 സമയത്ത് കപ്പാസിറ്ററിന് കുറുകെ ഉള്ള വോൾട്ടേജിനെ പ്രതിനിധീകരിക്കും ഇതിന് നെഗറ്റീവ് ചിഹ്നമുള്ളതിനാൽ കറൻറിൻറെ ദിശ ദിശയ്ക്ക് വിപരീതമായിരിക്കും അതിനാൽ ഇതിൽ നിങ്ങൾക്ക് Iന് തുല്യമായ സമവാക്യത്തെ പ്രതിനിധീകരിക്കാൻ കഴിയും കൂടാതെ കിർചോഫിന്റെ കറന്റ് നിയമത്തിന്റെ Kirchhoff's current law സഹായത്തോടെ വിശകലനം ചെയ്യേണ്ട സർക്യൂട്ട് കാണുമ്പോഴെല്ലാം ഇത് ഉപയോഗപ്പെടുത്താം അതിനാൽ ഈ വോൾട്ടേജും കറന്റ് സമവാക്യങ്ങളും നിങ്ങളുടെ സൌകരൃത്തിനനുസരിച്ച് സർക്യൂട്ട് പരിഹരിക്കാൻ ആവശ്യമുള്ളപ്പോഴെല്ലാം ഉപയോഗിക്കാൻ കഴിയും ഇപ്പോൾ ഈ സമവാക്യങ്ങളിൽ നിന്ന് പ്രാരംഭ അവസ്ഥകളും ഇപ്പോൾ പരിവർത്തനത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ നിരീക്ഷിക്കുന്നു അതിനാൽ എസ് ഡൊമെയ്നിലെ പ്രാരംഭ അവസ്ഥകളുമായി നമ്മൾ എങ്ങനെ സംയോജിപ്പിക്കുമെന്നതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല കാരണം എസ് ഡൊമെയ്ൻ സമവാക്യങ്ങൾ പ്രാരംഭ അവസ്ഥകളും ശ്രദ്ധിക്കുന്നു സർക്യൂട്ട് വിശകലനത്തിൽ ലാപ്ലേസ് പരിവർത്തനം ഉപയോഗിക്കുന്നതിന്റെ ഏറ്റവും വലിയ നേട്ടമാണിത് ഇപ്പോൾ മറ്റൊരു നേട്ടം ഇത് നിങ്ങൾക്ക് ഒരു സമ്പൂർണ്ണ പ്രതികരണം നൽകും അതിൽ സർക്യൂട്ടിന്റെ ക്ഷണികവും സ്ഥിരവുമായ അവസ്ഥയിലെ പ്രതികരണം ഉൾപ്പെടും അതിനാൽ ഒന്നാം ഓർഡർ രണ്ടാമത്തെ ഓർഡർ സർക്യൂട്ട് സ്റ്റെപ്പ് റസ്പോൺസിനെക്കുറിച്ച് ചർച്ചചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ നമ്മൾ പരിഹാരത്തെ സ്വാഭാവിക പ്രതികരണമായും നിർബന്ധിത പ്രതികരണമായും കണ്ടെത്തിയ രണ്ട് പ്രതികരണവും വെവ്വേറെ പരിവർത്തനം ചെയ്തു ഒടുവിൽ അന്തിമ പ്രതികരണം ലഭിക്കുന്നതിന് നമ്മൾ സംഗ്രഹിക്കുന്നു ഈ സാഹചര്യത്തിൽ രണ്ട് പരിഹാരങ്ങൾ പ്രത്യേകം വിശകലനം ചെയ്യുന്നതിനെക്കുറിച്ചും പിന്നീട് സംഗ്രഹിക്കുന്നതിനെക്കുറിച്ചും നമ്മൾ വിഷമിക്കേണ്ടതില്ല കാരണം ലാപ്ലേസ് പരിവർത്തനവും ലാപ്ലേസ് പരിവർത്തനം ഉപയോഗിച്ചുള്ള സർക്യൂട്ട് വിശകലനവും നിങ്ങൾക്ക് സർക്യൂട്ടിന്റെ പൂർണ്ണ പ്രതികരണം നേരിട്ട് നൽകും ഇപ്പോൾ ഈ രണ്ട് സമവാക്യങ്ങളും നിങ്ങൾ അടുത്തറിയുകയാണെങ്കിൽ നിങ്ങൾ നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഡ്യുവലിറ്റി സ്ഥിരീകരിക്കാൻ കഴിയും കാരണം രണ്ട് സമവാക്യങ്ങളും കണ്ടാൽ L C യുടെ ഡ്യുവൽ ആണെന്നും I V ന്റെ ഡ്യുവൽ ആണെന്നും ഡ്യുവൽ ആണെന്നും അതിനാൽ ഇവ ഡ്യുവൽ ജോഡികൾ സൃഷ്ടിക്കുന്നു ഇപ്പോൾ എസ് ഡൊമെയ്നിലെ ഇംപിഡൻസിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇംപിഡൻസ് പൂജ്യ പ്രാരംഭ സാഹചര്യങ്ങളിൽ ഉളള വോൾട്ടേജ് ലാപ്ലേസ് പരിവർത്തനത്തിന്റെയും കറന്റ് ലാപ്ലേസ് പരിവർത്തനത്തിന്റെയും അനുപാതമല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ നമുക്ക് ഇംപിഡൻസ് എഴുതാം അതിനാൽ നമ്മൾ ചർച്ച ചെയ്ത ഈ മൂന്ന് സർക്യൂട്ട് ഘടകങ്ങളുടെ ഇംപിഡൻസ് മാറും റെസിസ്റ്റൻസ് ഇൻഡക്റ്റീവ് കപ്പാസിറ്ററിനായി ഇപ്പോൾ അഡ്മിറ്റൻസ് കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അഡ്മിറ്റൻസ് ഇംപെഡൻസിന്റെ റെസിപ്രോക്കൽ അഥവാ വ്യുൽക്രമം ആയിരിക്കും അതിനാൽ Zന്റെ അഡ്മിറ്റൻസ് കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതുപോലെ ചാലകതയുടെയും ഇൻഡക്റ്ററിന്റെയും കപ്പാസിറ്ററിന്റെയും മൂല്യങ്ങൾ വ്യുൽക്രമം ആയി മാറും ഇപ്പോൾ സർക്യൂട്ട് വിശകലനത്തിൽ ലാപ്ലേസിന്റെ ഉപയോഗം വിവിധ സിഗ്നൽ സ്രോതസ്സുകളുടെ ഉപയോഗം സുഗമമാക്കും അതിനാൽ ഇംപൾസ് പ്രതികരണം പോലെ സ്റ്റെപ്പ് പ്രതികരണം റാമ്പ് എക്സ്പോണൻഷ്യൽ സ്രോതസ്സ് impulse response step response ramp and exponential source പ്രതികരണം എന്നിവ സർക്യൂട്ട് വിശകലനം ചെയ്യുന്നതിന് ഉപയോഗപ്പെടുത്താം മൊത്തത്തിലുള്ള സർക്യൂട്ട് വിശകലനത്തിൽ സർക്യൂട്ട് ഘടകങ്ങളും അവയുടെ ലാപ്ലേസ് പരിവർത്തനവും നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് മനസിലാക്കാൻ ചില ഉദാഹരണങ്ങൾ എടുക്കാം ഇൻഡക്റ്ററിന് കുറുകെ കണ്ടെത്തേണ്ട ഒരു ഉദാഹരണം നോക്കാം കൂടാതെ ഇൻഡക്റ്ററിലൂടെ പ്രാരംഭ കറന്റോ കപ്പാസിറ്ററിന് കുറുകെ ഉള്ള പ്രാരംഭ വോൾട്ടേജോ ഇല്ലെന്ന് നമ്മൾ അനുമാനിക്കുന്നു അതിനാൽ അതിന് 0 പ്രാരംഭ അവസ്ഥ ആയിരിക്കും ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ആദ്യം നമ്മൾ സമയ ഡൊമെയ്നിൽ നിന്ന് എസ് ഡൊമെയ്നിലേക്ക് സർക്യൂട്ട് പരിവർത്തനം ചെയ്യണം അതിനാൽ നിങ്ങൾ എസ് ഡൊമെയ്നിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ സ്രോതസ്സ് അത് ആയി മാറും ഇൻഡക്റ്റർ sL ആയി മാറും L മൂല്യം 1 ആയതിനാൽ അത് s ആയി മാറും 13 എഫ് ഫാറഡ് കപ്പാസിറ്ററിന് എസ് ഡൊമെയ്നിൽ മൂല്യം ആയി മാറും ഇപ്പോൾ ഈ ഘടകങ്ങളെല്ലാം എസ് ഡൊമെയ്നിൽ ഉണ്ട് നമുക്ക് ഇപ്പോൾ ഈ സർക്യൂട്ടിനെ എസ് ഡൊമെയ്നിൽ പ്രതിനിധീകരിക്കാൻ കഴിയും അതിനാൽ സ്രോതസ്സ് ഇപ്പോൾ 1s ആയി മാറും അതിനാൽ റസിസ്റ്റൻസുകളിൽ മാറ്റമുണ്ടാകില്ല അതിനാൽ ഇവ അതേപടി തുടരും കപ്പാസിറ്റർ ഇപ്പോൾ 3s ആയി മാറി ഇൻഡക്റ്റർ s ആയിത്തീർന്നു എസ് ഡൊമെയ്നിലെ ഇൻഡക്ടറിന് കുറുകെ ഉള്ള വോൾട്ടേജ് ആദ്യം കണ്ടെത്തേണ്ടതുണ്ട് തുടർന്ന് നമ്മൾ അത് സമയ ഡൊമെയ്നിലേയ്ക് പരിവർത്തനം ചെയ്യും ഇപ്പോൾ നിങ്ങൾ സർക്യൂട്ട് കണ്ടാൽ നിങ്ങൾക്ക് മെഷ് വിശകലനം ഉപയോഗിക്കാൻ കഴിയും അതിനാൽ കറന്റ് I 1 ആദ്യ ലൂപ്പിലാണെന്നും I 2 രണ്ടാം ലൂപ്പിലാണെന്നും പറയാം മെഷ് 1 ന് നിങ്ങൾക്ക് സമവാക്യം എഴുതാം മെഷ് 2 ന് എന്ത് സംഭവിക്കും നിങ്ങൾ എല്ലാ ഇംപിഡൻസുകളും സംഗ്രഹിക്കും അങ്ങനെ അത് മാറും I 2 നായി നിങ്ങൾക്ക് ലഭിക്കും I 2 ന്റെ വിപരീത ദിശയിലായതിനാൽ കപ്പാസിറ്ററിന് മറ്റൊരു പദം ലഭിക്കും ഇപ്പോൾ ഇത് ലളിതമാക്കുമ്പോൾ നിങ്ങൾക്ക് ന്റെ മൂല്യം ലഭിക്കും ഇപ്പോൾ നിങ്ങൾ ലളിതമാക്കുകയാണെങ്കിൽ ഇപ്പോൾ അത് പരിഹരിക്കുന്നതിന് നിങ്ങൾ സൃഷ്ടിക്കുന്ന വർഗ്ഗം ഉപയോഗിക്കും അതിനാൽ നിങ്ങൾ ആദ്യം ഈ പദങ്ങളുടെ വർഗ്ഗം സൃഷ്ടിക്കും അതിനാൽ ഇത് ആയി മാറും ഇപ്പോൾ അംശത്തിൽ നിങ്ങൾക്ക് √2 കൊണ്ട് ഗുണിക്കാംനിങ്ങൾക്ക് ഛേദത്തിൽ √2 ആകാം അതിനാൽ ഈ ഘടകം കണ്ടാൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ന്റെ ലാപ്ലേസ് പരിവർത്തനമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഇതിലൂടെ നിങ്ങൾക്ക് ഇൻഡക്ടറിന് കുറുകെ ഉള്ള വോൾട്ടേജ് പ്രതികരണം ലഭിക്കും നമുക്ക് മറ്റൊരു കേസ് നോക്കാം കപ്പാസിറ്ററിന് കുറുകെ ഉള്ള വോൾട്ടേജ് മൂല്യം 5 വോൾട്ട് ആയിരിക്കുമ്പോൾ നമ്മൾ ആദ്യം സർക്യൂട്ടിനെ എസ് ഡൊമെയ്നായി പരിവർത്തനം ചെയ്യും നൽകിയിരിക്കുന്ന പ്രാരംഭ വ്യവസ്ഥയ്ക്ക് കറന്റ് ഉറവിടം Cv o ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ ആദ്യം കാണണം കാരണം ഇവയെല്ലാം സമാന്തരമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ അതിനർത്ഥം കിർചോഫിന്റെ കറന്റ് നിയമം Kirchhoff's current law ഏറ്റവും അനുയോജ്യമായ ഐച്ഛികം ആയിരിക്കുമെന്നാണ് ഇപ്പോൾ നിങ്ങൾ കിർചോഫിന്റെ കറന്റ് നിയമം കാണുമ്പോൾ അർത്ഥമാക്കുന്നത് നിങ്ങൾ ഈ കപ്പാസിറ്ററിനെ തുല്യമായ എസ് ഡൊമെയ്നായി പരിവർത്തനം ചെയ്യണം എന്നാണ് അതിനാൽ ഇപ്പോൾ ഈ പ്രത്യേക പദം 1sC ആയി പരിവർത്തനം ചെയ്യും നിങ്ങൾക്ക് സമാന്തരമായി ന്റെ കറന്റ് സ്രോതസ്സ് മൂല്യം ഉണ്ടായിരിക്കും 5 വോൾട്ടായി നൽകുന്നു C ന് 0 1 F നൽകിയിരിക്കുന്നു

ഇപ്പോൾ ഈ പ്രത്യേക സർക്യൂട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് എസ് ഡൊമെയ്നിലെ പൂർണ്ണ സർക്യൂട്ട് പരിവർത്തനം ചെയ്യാൻ കഴിയും അതിനാൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഇത് എസ് ഡൊമെയ്നിൽ പരിവർത്തനം ചെയ്യും യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എക്സ്പോണൻഷ്യൽ കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് സമയത്തിൽ വ്യതിയാനം ലഭിക്കുന്നു അതിനാൽ വോൾട്ടേജ് സ്രോതസ്സിന്റെ ലാപ്ലേസ് പരിവർത്തനം ആയി മാറും തുടർന്ന് റെസിസ്റ്റൻസ് അതേപടി തുടരും കപ്പാസിറ്റർ ഇപ്പോൾ ആയി പരിവർത്തനം ചെയ്യും സമാന്തരമായി നിങ്ങൾക്ക് ഒരു കറന്റ് സ്രോതസ്സ് 0 5 ആമ്പിയർ മൂല്യമായി ആയിരിക്കും കാരണം ഇത് പ്രാരംഭ അവസ്ഥയെ പ്രതിനിധീകരിക്കും ലാപ്ലേസ് പരിവർത്തനത്തിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറന്റ് സ്രോതസ്സ് 2 ആമ്പിയർ ആകും മുകളിലെ നോഡിൽ നിങ്ങൾ കിർചോഫ് കറന്റ് നിയമം പ്രയോഗിക്കേണ്ടതുണ്ട് അതിനാൽ 1 2 3 എന്നിവ നോഡിനുള്ളിലേക്ക് പോകുന്ന കറന്റുകളും 2 നോഡിൽ നിന്ന് പുറത്തുവരുന്നതും നിങ്ങൾ കാണും അതിനാൽ അകത്തേക്കു വരുന്നതും പുറത്തേക്ക് പോകുന്നതുമായ കറന്റുകൾ സംയോജിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അത് പറയാൻ കഴിയും ഇവിടെ പുറത്തേക്ക് പോകുന്ന കറന്റ് ഉം ഇവിടെ പുറത്തേക്ക് പോകുന്ന കറന്റ് ഉം ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ ഇരുവശവും 10 കൊണ്ട് ഗുണിച്ച് പുനക്രമീകരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പരിഹരിക്കുമ്പോൾ നിങ്ങൾക്ക് A 10 B 15 എന്നിവയുടെ മൂല്യം ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന വിപരീത ലാപ്ലേസ് പരിവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് എളുപ്പത്തിൽ എഴുതാം ഇപ്പോൾ ഇതുവച്ച് നമ്മളുടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം ഇതിൽ നമ്മൾ വിവിധ സർക്യൂട്ട് ഘടകങ്ങളെക്കുറിച്ചും അവ എങ്ങനെ ലാപ്ലേസ് പരിവർത്തനമാക്കി മാറ്റാമെന്നും ചർച്ചചെയ്തു അടുത്ത ക്ലാസിൽ ട്രാൻസ്ഫർ ഫംഗ്ഷനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും നന്ദി